ID0 gmvi 0 or vi ID0 gm ഇനി കട്ടോഫ് ഇംപോസ് ചെയ്തിട്ടുള്ള ലിമിറ്റിലേക്ക് നോക്കാം ഇനി എന്താണ് കട്ടോഫ് ട്രാൻസിസ്റ്റർ ഡ്രയിൻ കറൻറ് പൂജ്യത്തിലേക്ക് താഴുമ്പോൾ കട്ടോഫ് ഉണ്ടാകുന്നു അതിനാൽ കട്ടോഫ് ഒഴിവാക്കാൻ ടോട്ടൽ ഡ്രയിൻ കറൻറ് പൂജ്യത്തെക്കാൾ കൂടുതലായിരിക്കണം ഇനി ടോട്ടൽ ഡ്രയിൻ കറൻറ് ID0 gmvi 0 അല്ലെങ്കിൽ vi ID0 gm ആയിരിക്കണം ഇനി ഈ ലിമിറ്റ് അർത്ഥം ഉള്ളതാണ് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് ട്രാൻസിസ്റ്ററിൽ കുറച്ച് ക്വിസന്റ് കറൻറ് ഉണ്ടായിരിക്കും ഒരു നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ടാകുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് പോയിൻറ് വോൾട്ടേജിന് താഴെ ആകുന്നു ഇത് കട്ടോഫിലേക്ക് പോകാൻ തുനിയുന്നു അതിനാലാണ് ഇത് നെഗറ്റീവ് ആകുന്നത് അതിനാൽ നമുക്ക് ഒരു വാല്യൂ ലഭിക്കുന്നു And what is V GS total VGS VGS0 vi ≥ VT or vi ≥ ഇനി കട്ടോഫിനെ VGS ത്രഷോൾഡ് വോൾട്ടേജിനു താഴെ വരുന്നതായി കരുതാം അതായത് അത് കട്ട് ഓഫ് ഒഴിവാക്കാൻ VGS ≥ VT VGS എന്താണ് VGS VGS0 vi ≥ VT അല്ലെങ്കിൽ vi ≥ ഇതാണ് കട്ടോഫ് കണ്ടീഷൻ പ്രയോഗിക്കുന്നത് വഴി ലഭിക്കുന്ന ലിമിറ്റ് ഇങ്ങനെ പറയുമ്പോൾ VGS ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ threshold voltage VT കൂടുതലായിരിക്കണം അതിനാൽ കട്ട് ഓഫ് ലിമിറ്റ് കണക്കാക്കുന്നതിനായി നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് gm 2 ID0 Vi ID0 gm which is Vi 2 നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോകാം നമുക്ക് ട്രാൻസിസ്റ്ററിൻറെ gm എത്രയാണെന്ന് അറിയാം ഇതിൻറെ ഒരു എക്സ്പ്രഷൻ താഴെ പറയുന്നതു പോലെയാണ് gm 2 ID0 ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ലഭിക്കും Vi ID0 gm അതായത് Vi 2 ഇനി ഇവിടെ VGS0 VT എന്നുണ്ട് പക്ഷേ ഇവിടെ അധികമായി 2 എന്ന ഫാക്ടർ ഉണ്ട് എന്നാൽ ആദ്യമായി നാം എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇവിടെ കട്ട് ഓഫ് ലിമിറ്റ് 2 വ്യത്യസ്ത തരത്തിൽ കണക്കാക്കി ഇവിടെ ടോട്ടൽ ഡ്രയിൻ കറൻറ് പൂജ്യത്തേക്കാൾ കൂടുതൽ ആയിരിക്കണമെന്ന കണ്ടീഷൻ നാം നിർബന്ധമായും വച്ചിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ ആയിരിക്കണമെന്ന കണ്ടീഷനാണ് വച്ചിട്ടുള്ളത് ഇവ രണ്ടും വ്യത്യസ്ത ഉത്തരങ്ങൾ ആണ് നൽകുന്നത് അത് എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ റീജിയണിൽ മോസ് ട്രാൻസിസ്റ്ററിൻറെ യഥാർത്ഥ ID VGS ക്യാരക്ടറിസ്റ്റിക്സ് സ്ക്വയർ ലോ ആണെന്ന് നമുക്കറിയാം ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 1 വോൾട്ട് ആകുന്നതുവരെ കറൻറ് പൂജ്യമായിരിക്കും അത് പിന്നീട് വർദ്ധിക്കുന്നു 3 വോൾട്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ 200 µA 2 വോൾട്ടിൽ 50 µA 4 വോൾട്ടിൽ 450 µA നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻറ് അവിടെയാണ് റിസൽട്ട് ക്വിസൻറ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 3 വോൾട്ട് ആണ് അതുകൂടാതെ ഒരു ഇൻക്രിമെൻറ് കൂടെ ഉണ്ട് പറഞ്ഞുവരുന്നത് ടോട്ടൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 3 വോൾട്ട് പ്ലസ് ഇൻക്രിമെൻറ് ആണ് എന്നാണ് ഇത് 3 വോൾട്ടിൽ താഴെയായിരിക്കും vi നെഗറ്റീവ് ആയിരിക്കും അതിനാൽ vi യുടെ വാല്യൂവിനെ ആശ്രയിച്ചു എല്ലായിടത്തും 3 vi ആയിരിക്കും ID ID0 gm vi ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇതിന് ഈ പോയിൻറിൽ എത്താൻ ആവുകയും കറൻറിന് പൂജ്യം ആകാൻ കഴിയുകയും ചെയ്യും അതിനാൽ 2 വോൾട്ട് ഇൻക്രിമെൻറ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും VGS ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം എന്നുപറയുന്നത് വഴി ലഭിക്കുന്ന ലിമിറ്റ് ആണ് ഇത് ഇനി നാം ഇങ്ങനെ പറഞ്ഞു കൊണ്ട് മറ്റൊരു ലിമിറ്റ് കണക്കാക്കി ID 0 പോയിൻറ് ID ൽ ആണ് ക്വിസൻറ് കറൻറ് ID0 ഇവിടെയാണ് കൂടാതെ ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് സ്മാൾ സിഗ്നൽ ഇക്വിവാലൻറ് സർക്യൂട്ടിൽ നിന്നും കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ gm vGS പ്ലസ് അല്ലെങ്കിൽ പ്ലസ് gm vi ID ID0 gm vi മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ടോട്ടൽ ഡ്രയിൻ കറൻറ് ഇതാണെന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഓപ്പറേറ്റിങ് പോയിന്റിൽ ഈ കർവിൻറെ ടാൻജൻറ് ആണ് ഉപയോഗിക്കുന്നത് ടോട്ടൽ ഡ്രയിൻ കറൻറ് പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെന്ന് പറയുമ്പോൾ നാം ഈ ടാൻജൻറ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ടാൻജൻറ് എവിടെയാണ് പൂജ്യത്തിലേക്ക് പോകുന്നത് എന്നതാണ് നോക്കുന്നത് യഥാർത്ഥ ID vs VGS കർവ് പൂജ്യത്തിലേക്ക് പോകുന്നത് എവിടെയാണ് എന്നതല്ല അതിനാൽ ടോട്ടൽ ഡ്രയിൻ കറൻറ് പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ലിമിറ്റ് ഇത്രയാണ് ഇത് VGS0 ആണെന്ന് കാണാൻ സാധിക്കും ഇത് മൈനസ് വൺ വോൾട്ട് ഇൻക്രിമെന്റും ആയി യോജിക്കുന്നതാണ് ഇത് ഇതിൻറെ കൃത്യമായ പകുതിയാണ് ഇവിടത്തെ പാരബോളയുടെ സ്വഭാവം എന്തെന്നാൽ ടാൻജൻറ് പൂജ്യത്തെ കടന്നുപോകുന്ന ഭാഗം പാരബോള യഥാർത്ഥത്തിൽ പൂജ്യത്തിൽ എത്തുന്ന ഭാഗത്തിൻറെ കൃത്യമായ പകുതിയിലാണ് നാം കട്ടോഫ് ലിമിറ്റ് രണ്ട് വ്യത്യസ്ത ക്രൈറ്റീരിയ ഉപയോഗിച്ച് രണ്ടു രീതിയിൽ കണക്കാക്കി കഴിഞ്ഞു ഒന്ന് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രഷോൾഡ് വോൾട്ടേജിനു തുല്യമാക്കി കൊണ്ട് അടുത്തത് ഡ്രെയിൻ കറൻറ് പൂജ്യത്തിന് തുല്യമാക്കി കൊണ്ട് ഇവ രണ്ടും വ്യത്യസ്ത ഉത്തരങ്ങൾ ആണ് നൽകുന്നത് കൂടുതൽ സമയവും നാം ഇതിനെ ലിമിറ്റ് ആയി ഉപയോഗിക്കുന്നു അതായത് ടോട്ടൽ ഡ്രെയിൻ കറൻറ് പൂജ്യത്തെക്കാൾ കൂടുതലായി ഉപയോഗിക്കുന്നു ഇതിന് ചില കാരണങ്ങളുണ്ട് യഥാർത്ഥ ഡ്രെയിൻ കറൻറ് പൂജ്യത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് അറിയാമെങ്കിലും ഇവിടെ നാം ഇത് ഉപയോഗിക്കുന്നു ആദ്യമായി ഇത് നമുക്കൊരു കൺസർവേറ്റീവ് ലിമിറ്റ് നൽകുന്നു ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ സ്വിങ് ലിമിറ്റ് എന്നത് എത്രമാത്രം സിഗ്നൽ പ്രയോഗിക്കാം എന്നതിൻറെ ഒരു ഏകദേശ മൂല്യനിർണയം മാത്രമാണ് ഒരു റിയൽ സർക്യൂട്ടിൽ സർക്യൂട്ട് സ്റ്റിമുലേറ്റ് ചെയ്തതിനുശേഷം ഹാർമോണിക്സിൻറെയും മറ്റ് ഡിസ്റ്റോഷൻ പ്രൊഡക്റ്റിൻറെയും ബലം എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട് അതിനുശേഷം സിഗ്നൽ ലിമിറ്റ് കണക്കാക്കണം ഇവിടെ ഏറ്റവും വലിയ സിഗ്നലിൻറെ ഏകദേശ മൂല്യനിർണയമാണ് നമുക്ക് ചെയ്യേണ്ടത് ഡ്രയിൻ കറൻറിനെ ആശ്രയിച്ചുള്ള ലിമിറ്റ് കൂടുതൽ കൺസർവേറ്റീവ് ആണ് അതായത് ഇത് VGS നെ ആശ്രയിച്ചുള്ള ലിമിറ്റിനേക്കാൾ കുറഞ്ഞ ലിമിറ്റ് നൽകുന്നു കൂടാതെ MOS ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ ഇതിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതേസമയം ബൈപോളാർ ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ ടോട്ടൽ കറൻറിനെ ആസ്പദമാക്കിയുള്ള കണ്ടീഷൻ ആണ് കൂടുതൽ ഉപയോഗപ്രദം MOS ട്രാൻസിസ്റ്റർ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഇവ രണ്ടും ഉപയോഗിച്ചുള്ള സർക്യൂട്ടിൽ ഒരേ മെത്തേഡ്സ് ഉപയോഗിക്കാൻ ടോട്ടൽ കറൻറ് ആസ്പദമാക്കിയുള്ള ലിമിറ്റ് ആണ് നാം ഉപയോഗിക്കുന്നത് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് പക്ഷേ രണ്ട് ലിമിറ്റ്സും എന്തുകൊണ്ട് വ്യത്യസ്തമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കേസിൽ നാം പാരബോള ഉപയോഗിക്കുന്നു മറ്റേ കേസിൽ ഓപ്പറേറ്റിങ് പോയിൻറിൽ ടാൻജൻറ് ലൈൻ ഉപയോഗിക്കുന്നു തീർച്ചയായും ടാൻജൻറ് ലൈൻ പൂജ്യത്തെ മറികടക്കുന്നത് പാരബോള പൂജ്യത്തിൽ എത്തുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ പോയൻറിൽ ആണ് എന്നിരുന്നാലും ടാൻജൻറ് ലൈൻ അപ്രോക്സിമേറ്റ് ആണെങ്കിലും നാം ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ആദ്യമായി നമുക്ക് ഒരു ഏകദേശ ലിമിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ കൂടാതെ ഇതേ മെത്തേഡ് ബൈപോളാർ ട്രാൻസിസ്റ്ററിൽ കൂടി ഉപയോഗിക്കാം

And if you use the VGS based limit vi ≥ VGS0 3 V VT 1 V so this says that it vi ≥ ഇത് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ എന്താണ് ലഭിക്കുക ആദ്യമായി ട്രയോഡ് റീജിയൺ ലിമിറ്റ് ഞാൻ ട്രയോഡ് റീജിയൺ ലിമിറ്റ് എന്നുപറയുമ്പോൾ ഈ ഇനിക്വാലിറ്റി എഴുതുന്നു അങ്ങനെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയണിൽ തന്നെ നിൽക്കുന്നു ഇത് സാച്ചുറേഷൻ റീജിയണിൽ ആകണമെങ്കിൽ vi ≤ VDS0 VGS0 VT 1 gm RD ║ RL ഇനി ഇത് എത്രയാണ് VDS0 4 volts VGS0 3 volts VT 1 volt gm RD ║ RL 5 1 gm RD ║ RL 6 VDS0 VGS0 VT 2 vi ≤ 2 6 13 ഇൻപുട്ട് വോൾട്ട് 330 മില്ലി വോൾട്ട്സിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കും ഇനി ഡ്രയിൻ കറൻറ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് കട്ട് ഓഫ് ലിമിറ്റ് കണ്ടെത്താം നമുക്കറിയാം vi ≥ IDO gm അല്ലെങ്കിൽ vi ≥ 200 µA 200 µS 1 V ഇനി VGS ആസ്പദമാക്കിയുള്ള ലിമിറ്റ് ഉപയോഗിച്ചാൽ vi ≥ VGS0 3 V VT 1 V അതിനാൽ ഇത് പറയുന്നത് vi ≥ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇത് ഒരു കൺസർവേറ്റീവ് ലിമിറ്റ് ആണ് നൽകുന്നത് കൂടാതെ ഇതേ മെത്തേഡ് ബൈപോളാർ ട്രാൻസിസ്റ്ററിൽ കൂടി ഉപയോഗിക്കാൻ സാധിക്കും അതിനാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അതിനാൽ ഈ പ്രവർത്തികളെല്ലാം പറയുന്നതെന്തെന്നാൽ vi 1 V 13 V എന്നിവയ്ക്ക് മധ്യേ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ പ്രവർത്തനത്തിന് ആവശ്യമായ റീജിയണിൽ തുടരുകയും എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ ഇത് ഈ ലിമിറ്റ്സിൽ നിന്നും മീതെ പോവുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഒന്നുകിൽ ട്രയോഡ് റീജിയണിൽ അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയണിൽ പ്രവേശിക്കും ഇത് നമുക്ക് ഏറ്റവും വലിയ സിഗ്നൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനുള്ള ഒരു ഏകദേശ രൂപം നൽകുന്നു നമ്മുടെ ഉപകരണങ്ങൾ നോൺ ലീനിയർ ആണെന്ന് നമുക്കറിയാം ട്രാൻസിസ്റ്റർ അടങ്ങുന്ന ഒരു സർക്യൂട്ടിന് അനന്തമായി വലുതായ ഒരു സിഗ്നൽ പ്രയോഗിച്ചാൽ വളരെ വലിയ നോൺലീനിയർ പ്രോഡക്റ്റ്സ് ഉണ്ടാവുകയും സർക്യൂട്ട് ഉപയോഗശൂന്യമാവുകയും ചെയ്യും അതിനാൽ എത്രമാത്രം സിഗ്നൽ ഉപയോഗിക്കാം എന്നുള്ളതിൻറെ ഒരു ഏകദേശരൂപം നമുക്ക് ലഭിക്കണം ഇത് ക്രൈറ്റീരിയ ആശ്രയിക്കാതെ ഉള്ള ഒരു ഏകദേശ മൂല്യനിർണയം നമുക്ക് നൽകുന്നു ഇതു ഡിസ്റ്റോഷൻ പോലെയുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ വളരെ വിഷമവും കൈകൊണ്ട് ചെയ്യാൻ അസാധ്യവുമാണ് ഇതിനായി സർക്യൂട്ട് സിമുലേറ്റർ ഉപയോഗിക്കാം 1 V ≤ vi ≤ 13 V നമ്മുടെ സർക്യൂട്ടിലേക്ക് തിരിച്ചു പോയാൽ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത് 1 V ≤ vi ≤ 13 V vi ഒരു സൈനുസോഡ് ആണെന്ന് എടുക്കുക vi എന്നത് Vp Cosωt ആണെന്നു് കരുതാം ഇതൊരു സിമ്മട്രിക്കൽ വേവ്ഫോം ആണ് അതായത് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ദിശകളിലേക്ക് തുല്യമായി പോകുന്നു എന്നാൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആംപ്ലിട്യൂഡ് എന്താണ് തീർച്ചയായും ഇത് രണ്ടു ലിമിറ്റ്സിലെ ചെറുതായിരിക്കും കാരണം ഇൻപുട്ട് വൺ ബൈ ത്രീ വോൾട്ട്സ് ആംപ്ലിട്യൂഡോടു കൂടി പ്രയോഗിച്ചാൽ സൈനുസോഡിൻറെ പീക്കിൽ ഈ ലിമിറ്റ് ലഭിക്കും ആംപ്ലിട്യൂഡ് ഒരു വോൾട്ട് ആയി ഇൻപുട്ട് പ്രയോഗിച്ചാൽ ഇത് പോസിറ്റീവ് ഭാഗത്തെ ലിമിറ്റ് മറികടക്കും ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ പോകും ഈ രണ്ടു ലിമിറ്റ്സിലെ ചെറിയ ലിമിറ്റ് സൈനുസോഡിൻറെ പ്രയോഗിക്കാവുന്ന ആംപ്ലിട്യൂഡ് തീരുമാനിക്കും ഈ സർക്യൂട്ടിൽ ഇത് ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്നതു കൊണ്ടുള്ള ലിമിറ്റ് ആണ് ഇത് സിഗ്നൽ സ്വിങ് ലിമിറ്റ് ചെയ്യുന്നു അതിനാൽ ഇതൊരു ലീനിയർ ആംപ്ലിഫയർ ആയി പെരുമാറാൻ Vp ≤ 1 3 V ആയിരിക്കണം ഇത് വ്യക്തമാണെന്നു കരുതുന്നു നാം ചെയ്യുന്നത് എന്തെന്നാൽ ടോട്ടൽ ക്വാണ്ടിറ്റിസ് എല്ലായിടത്തും കണ്ടുപിടിക്കുന്നു അതായത് VDS VGS ഡ്രയിൻ കറൻറ് ID ഇവയ്ക്ക് സാച്ചുറേഷൻ കട്ടോഫ് എന്നിവയിലേക്കു പോകുന്നതിന് ലിമിറ്റ് നൽകുന്നു പക്ഷേ കട്ടോഫ് ലിമിറ്റിൻറെ കാര്യത്തിൽ 2 സാധ്യതകളുണ്ട് ഡ്രയിൻ കറൻറ് പൂജ്യം ആയി സ്ഥാപിക്കുക അല്ലെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പൂജ്യം ആക്കുക നമ്മുടെ കാര്യത്തിൽ ഡ്രയിൻ കറൻറ് നൽകുന്ന ലിമിറ്റ് ഒരേപോലെ ഉപയോഗിക്കുന്നു ഇത് ഏകദേശം ആയിട്ടുള്ളത് മാത്രമാണെന്ന് നമുക്കറിയാം പക്ഷേ നാം ഒരേകദേശ മൂല്യനിർണയം മാത്രമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൂടാതെ ഇതേ മെത്തേഡ് MOS ട്രാൻസിസ്റ്റർ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഇവ രണ്ടും ഉപയോഗിച്ചുള്ള സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടതുണ്ട്